ഒരു അതിർത്തിയിൽ തരംഗങ്ങളുടെ പ്രതിഫലനം I പിരിമുറുക്കമുള്ള സ്ട്രിംഗിൽ തരംഗമാക്കുക ഇതുവരെ നമ്മൾ വൈദ്യുതകാന്തിക തരംഗങ്ങളെക്കുറിച്ചും ഊർജ്ജം കടത്തിവിടുന്നതിനെക്കുറിച്ചും മോമെൻറ്റo കൂട്ടുന്നതിനെ ക്കുറിച്ചും ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചു ഇതിൽ പ്രഭാഷണത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങൾ തമ്മിലുള്ള അതിർത്തിയിൽ വൈദ്യുതകാന്തിക തരംഗങ്ങൾ വരുമ്പോൾ എന്തുസംഭവിക്കുന്നു അവ പ്രതിഫലിപ്പിക്കുകയോ പ്രക്ഷേപണം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കൃത്യമായി ആ ഗുണകങ്ങൾ എന്താണെന്ന് നമ്മൾ അത് മനസിലാക്കാൻ ആഗ്രഹിക്കുന്നു ഇത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ നിന്നും അനുബന്ധ അതിർത്തി വ്യവസ്ഥകളിൽ നിന്നും കണ്ടെത്തിയതാണ് അതിനാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് മെക്കാനിക്കൽ തരംഗങ്ങളിലൂടെ ഒരു അതിർത്തിയിൽ പ്രതിഫലനം നടക്കേണ്ടതിന്റെ പ്രചോദനം തുടർന്ന് വൈദ്യുതകാന്തിക തരംഗങ്ങളിലേക്ക് പോകുക അതിനാൽ ഈ പ്രഭാഷണത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അതിർത്തിയിൽ ഈ എം തരംഗങ്ങളുടെ പ്രതിഫലനമാണ് ഞങ്ങൾ സ്വയം പരിമിതപ്പെടുത്താൻ പോകുന്നു കാരണം ഒരു പ്രതലത്തിലേക്ക് സാധാരണ വീഴുന്ന രണ്ട് തരംഗങ്ങൾ എന്ന പ്രതിഭാസത്തെ മനസിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് പ്രതിഫലനത്തിന് കാരണമാകുന്ന അതിർത്തിയാണെന്ന് ഒരു മെക്കാനിക്കൽ തരംഗമുണ്ടെങ്കിൽ ആദ്യം അത് മനസ്സിലാക്കാം ഉദാഹരണത്തിന് എനിക്ക് ഒരു സ്ട്രിംഗിൽ ഒരു തരംഗമെടുക്കാം പോകുന്ന ഒരു സ്ട്രിംഗിൽ നമുക്ക് ഒരു തരംഗമെടുക്കാം ഞങ്ങൾ രണ്ട് വ്യത്യസ്ത സ്ട്രിംഗുകൾ എടുക്കുന്നുവെന്ന് കരുതുക ഒരു മാസ്സ് mu 1 ന് ഒരു മീറ്റർ സ്ക്വയറിന് മറ്റൊന്ന് അല്പം വ്യത്യസ്തമായ മാസ്സ് mu 2 ഒരു മീറ്റർ സ്ക്വയറിന് പിന്നെ ഈ അതിർത്തിയിൽ എന്ത് സംഭവിക്കും ഒരു തരംഗം വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തരംഗം കണ്ടുമുട്ടുന്നുവെന്ന് നമുക്ക് പറയാം തുടർന്ന് മറുവശത്ത് ഒരേ തരംഗം നമുക്ക് ഇതുപോലെ പോകുന്നു എന്ന് പറയട്ടെ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥാനചലനം y ആണ് സാമാന്യത നഷ്ടപ്പെടാതെ ഇത് x 0 ന് തുല്യമായി കണക്കാക്കാം തരംഗദൈർഘ്യം y ഇൻസിഡന്റ് തരംഗമാണ് തരംഗദൈർഘ്യം y പ്രക്ഷേപണം ചെയ്യുന്നു പ്രതിഫലനമില്ലെന്ന് നമുക്ക് പറയാം പ്രതിഫലനമൊന്നുമില്ലെന്ന് കരുതുക പിന്നെ എന്ത് സംഭവിക്കും ഞാൻ രണ്ട് വശത്തുനിന്നും വന്നാൽ സ്ഥാനചലന രൂപം സമാനമായിരിക്കണമെന്ന് എനിക്കറിയാം അതിനാൽ x 0 ന് തുല്യമായി എനിക്ക് y i y t യ്ക്ക് തുല്യമായിരിക്കണം ഒരു സമവാക്യത്തെക്കുറിച്ച് കൂടി ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചാൽ ഇത് പൂജ്യമാണ് ഇത് പൂജ്യo മാസ്സ് ഉള്ള വളരെ ചെറിയ പോയിന്റ് മാസ്സ് ആണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകും അതിനാൽ അതിർത്തിയിലെ ഒരു പോയിന്റിലെ ഫോഴ്സ് പൂജ്യമായിരിക്കണം അല്ലാത്തപക്ഷം അത് അനന്തമായ ത്വരണം ഉപയോഗിച്ച് നീങ്ങും എന്താണ് ബലം നൽകുന്നത് അടുത്ത സ്ലൈഡിൽ അത് നോക്കാം എനിക്ക് ഈ അതിർത്തി ഉണ്ടെങ്കിൽ ഇടത് വശത്ത് എനിക്ക് ഈ സ്ഥാനചലനം ഉണ്ട് വലതുവശത്ത് എനിക്ക് മറ്റൊരു സ്ഥാനചലനം ഉണ്ട് അതിർത്തിയിൽ ഞാൻ ഇടത് വശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ സ്ട്രിംഗിൽ സംക്ഷോഭം T ഉണ്ട് ഞാൻ വളരെ ചെറിയ ആംപ്ലിറ്റ്യൂഡ് എടുക്കുന്നുവെന്നത് ഓർക്കുക അതിനാൽ T അതേപടി തുടരുന്നു അതിനാൽ ഈ ഘട്ടത്തിൽ ഈ കോണിൽ T യുടെ ഒരു ഫോഴ്സ് പീരിയഡ് അനുഭവപ്പെടുന്നു അത് ഒരു കോണിൽ തീറ്റയാണ് ഇത് തീറ്റയുടെ തിരശ്ചീന ഘടകം T കോസൈൻ നൽകുന്നു നമുക്ക് അതിനെ തീറ്റ 1 എന്ന് വിളിക്കാം കാരണം ഞാൻ ഇടതുവശത്ത് നിന്നാണ് വരുന്നത് ലംബ ഘടകം T സൈൻ തീറ്റ 1 വലതുവശത്ത് എനിക്ക് ഒരേ സംക്ഷോഭം ഉണ്ട് പക്ഷേ ഇത് ആംഗിൾ തീറ്റ 2 ആക്കുന്നു അതിനാൽ തിരശ്ചീന ഫോഴ്സ് t കോസൈൻ തീറ്റ 2 ആകും ലംബശക്തി t സൈൻ തീറ്റയും ആയിരിക്കും ഒരു ചെറിയ ആംഗിൾ ഏകദേശത്തിനോ ഒരു ചെറിയ ആംഗിൾ ആംപ്ലിറ്റ്യൂഡിനോ വേണ്ടി എനിക്ക് കോസൈൻ തീറ്റ 1 ഉം കോസൈൻ തീറ്റ 2 ഉം 1 ആകാം അതിനാൽ തിരശ്ചീന ഘടകങ്ങൾ റദ്ദാക്കുന്നു അവ നിങ്ങൾക്ക് പൂജ്യം നൽകുന്നു കാരണം ഇവിടെ കാണുന്ന നീല ഘടകം വലതുവശത്താണ് ചുവപ്പിനുള്ള ഘടകം ഇടതുവശത്താണ് എന്നിരുന്നാലും ലംബ ഘടകങ്ങൾ ഞാൻ മുകളിലേക്ക് പോകാൻ കോസൈൻ തീറ്റ സൈൻ തീറ്റ 2 എടുക്കുന്നതിനാൽ അതിനാൽ ഇത് തീറ്റ 2 മൈനസ് തീറ്റ 1 ആയിരിക്കും തീറ്റ 1 ടാൻ തീറ്റ 1 ന് തുല്യമാണ് ഇത് dx ഇൻസിഡന്റ് ന്റെ dy ഇൻസിഡന്റ് ന് തുല്യമാണ് അതുപോലെ തീറ്റ 2 ടാൻജെന്റാണ് തീറ്റ 2 അത് dy ഓവർ dx ന് തുല്യമാണ് അതിനാൽ നെറ്റ് ഫോഴ്സ് t dy ഓവർ dx മൈനസ് d y ഇൻസിഡന്റ് ഓവർ dx ന് തുല്യമാണ് തരംഗ സമവാക്യത്തിൽ നിന്ന് എനിക്ക് ഇത് എഴുതാൻ കഴിയും രണ്ട് തരംഗങ്ങളും വലതുവശത്തേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ T dy T ഓവർ d T1 ഓവർ v2 ഇവിടെ v2 വലത് സ്ട്രിംഗിലെ വേഗതയും പ്ലസ് 1 ഓവർ v 1 d y T ഓവർ d t d y I ഓവർ d t ഇത് പൂജ്യമായിരിക്കണം 1≅tan 1yI∂x 2≅tan 2 yT∂x Net forceTyT∂x yI∂xT 1v2yT∂t1v1yT∂t അതിനാൽ എനിക്ക് ഉള്ള രണ്ട് സമവാക്യങ്ങൾ ഇടത് വശത്ത് നിന്നുള്ള ഈ സ്ട്രിംഗ് വലതുവശത്തുള്ള സ്ട്രിംഗ് എനിക്ക് y ഇൻസിഡന്റ് y ട്രാൻസ്മിറ്റഡ് ന് തുല്യമാണ് എനിക്ക് മൈനസ് 1 ഓവർ v2 dy ട്രാൻസ്മിറ്റഡ് ഓവർ dt പ്ലസ് 1 ഓവർ v1 dy ഇൻസിഡന്റ് ഓവർ d t 0 ന് തുല്യമാണ് y ഇൻസിഡന്റ് yt ആയതിനാൽ എല്ലായ്പ്പോഴും എനിക്ക് dy ഇൻസിഡന്റ് dt അത് d y t ഓവർ d t ഓവർ ആയി ഉണ്ട് കാരണം അവ ഒരേ ഫേസ് ൽ തുടരുന്നു ഈ അവസ്ഥ എല്ലാ സമയത്തും തൃപ്തികരമാണ് അതിനാൽ എനിക്ക് മൈനസ് 1 ഓവർ v 2 പ്ലസ് 1 ഓവർ v 1 d y i d t 0 ന് തുല്യമാണ് Since yIyT yI∂tyT∂t 1v21v1yI∂t0 ഇതിനർത്ഥം r ഈ ചരിവ് പൂജ്യമാണ് അതിനർത്ഥം മിഡ്പോയിന്റിന് വേഗതയില്ല അവിടെ കണക്റ്റിംഗ് പോയിന്റിലെ പോയിന്റ് അല്ലെങ്കിൽ വേഗത തുല്യമാണ് വേഗത ഒന്നുതന്നെയാണെങ്കിൽ രണ്ട് മാധ്യമങ്ങൾ ഒന്നുതന്നെയാണ് അതിനാൽ മുഴുവൻ തരംഗവും ട്രാൻസ്മിറ് ചെയ്യുന്നു പക്ഷേ ഇത് തീർച്ചയായും പൂജ്യമാകരുത് സമവാക്യങ്ങളെ എങ്ങനെ ശരിയായി തൃപ്തിപ്പെടുത്തും ഒന്നുകിൽ എനിക്ക് ആ d y I ബൈ d t 0 ആയി ലഭിക്കുന്നു അത് സാധ്യമല്ല അല്ലെങ്കിൽ വേഗത തുല്യമാണ് അതിനാൽ എല്ലാ സമവാക്യങ്ങളും എല്ലായ്പ്പോഴും തൃപ്തിപ്പെടുത്താൻ ഞാൻ അവരുടെ എക്സിറ്റ് എടുക്കുമ്പോൾ ഒരു y പ്രതിഫലിക്കുന്നു അതിനാൽ ഒരു അതിർത്തി ഉണ്ടാകുമ്പോഴെല്ലാം ആ അതിർത്തിയുടെ രണ്ട് വശങ്ങളുടെ വേഗതയും വ്യത്യസ്തമാകുമ്പോൾ പ്രതിഫലിക്കുന്ന തരംഗവും ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം ഈ സമവാക്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് പ്രശ്നങ്ങളുണ്ടാകും അവ യഥാർത്ഥ സ്വഭാവം നൽകിയ സമവാക്യങ്ങളാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഭാഗത്ത് മറ്റൊരു മാസ്സ്ന്റെ സ്ട്രിംഗും വലതുവശത്ത് വ്യത്യസ്ത മാസ്സ് നൽകി എന്നതാണ് ഒരു ഇൻസിഡന്റ് തരംഗം y r സ്ഥാനചലനം y ഇൻസിഡന്റ് സ്ഥാനചലനത്തോടുകൂടിയ പ്രതിഫലിക്കുന്ന തരംഗം y t സ്ഥാനചലനത്തോടുകൂടിയ ഒരു പ്രക്ഷേപണ തരംഗം എന്നിവ നടക്കുന്നു വീണ്ടും നമുക്ക് സ്ഥാനചലനം ഉണ്ടായിരിക്കേണ്ട അതിർത്തി എല്ലായ്പ്പോഴും തുല്യമാണ് എന്നതിനാൽ എനിക്ക് y ഇൻസിഡന്റ് പ്ലസ് y റിഫ്ലെക്ടഡ് y ട്രാൻസ്മിറ്റഡ്ന് തുല്യമാണ് അതാണ് സമവാക്യം ഒന്നാം നമ്പർ എനിക്ക് നെറ്റ് ഫോഴ്സ് പൂജ്യവും ഉണ്ടായിരിക്കണം ഇടത് വശത്ത് നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് y I പ്ലസ് y r ആണ് അതിന്റെ ലംബ ഘടകം വീണ്ടും തീറ്റയായി മാറുന്നു ഇത് ടെൻഷൻ ന്റെ d ബൈ dx ആണ് അതാണ് ഇടത് വശത്തുള്ള നെറ്റ് ഫോഴ്സ് വലതുഭാഗത്ത് നിന്ന് ഇത് മൈനസ് ചിഹ്നo പ്ലസ് ആയിരിക്കും വലതുഭാഗത്ത് നിന്ന് ഞാൻ t dy ട്രാൻസ്മിറ്റഡ് ഓവർ dx 0 ന് തുല്യമാണ് അതാണ് എന്റെ സമവാക്യം രണ്ട് നമുക്ക് അവയെ സമയ സമവാക്യമാക്കി മാറ്റാം അതിനാൽ t ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു കാരണം ഇത് വലതുവശത്ത് 0 ആണ് എനിക്ക് dy I ഓവർ dx ഉണ്ടായിരിക്കും മൈനസ് ചിഹ്നം y r ഓവർ പാർഷിയൽ x തുല്യമായിരിക്കും മൈനസ് പാർഷിയൽ y ട്രാൻസ്മിറ്റഡ് ഓവർ v ഇതെല്ലാം പ്ലസ് ആക്കാം ഇൻസിഡന്റ് തരംഗം ഇടത്തുനിന്ന് വലത്തോട്ട് വരുന്നു അതിനാൽ ഇത് മൈനസ് 1 ഓവർ v 1 d y I d d പ്രതിഫലിച്ച കിരണം ഇടത്തേക്ക് പോകുന്നു അതിനാൽ ഈ പ്ലസ് 1 ഓവർ v 1 d y r ഓവർ d t ഇത് മൈനസ് 1 ഓവർ v 2 d y ട്രാൻസ്മിറ്റഡ് ഓവർ d t തുല്യമായിരിക്കണം വീണ്ടും സ്ഥാനചലനങ്ങൾ എല്ലായ്പ്പോഴും തുല്യമാണ് അതിനാൽ എനിക്ക് ഡെറിവേറ്റീവ് സമയം പുറത്തെടുക്കാൻ കഴിയും കൂടാതെ എനിക്ക് മൈനസ് y ഇൻസിഡന്റ് ഓവർ v 1 പ്ലസ് 1 ഓവർ v 1 y റിഫ്ലെക്ടഡ് ന് തുല്യമാണ് y ട്രാൻസ്മിറ്റഡ് ഓവർ v 2 മൈനസ് ചിഹ്നം അല്ലെങ്കിൽ മൈനസ് v 2 y ഇൻസിഡന്റ് പ്ലസ് v 2 y റിഫ്ലെക്ടഡ് തുല്യമാണ് മൈനസ് v 1 y ട്രാൻസ്മിറ്റഡ് ഇതാണ് എന്റെ സമവാക്യം രണ്ട് ഞാൻ രണ്ട് സമവാക്യങ്ങളും പരിഹരിക്കുന്നു ഒപ്പം y ട്രാൻസ്മിറ്റഡ് ചെയ്യപ്പെട്ട ഫലങ്ങൾക്കും y ഇൻസിഡന്റ് ന്റെ അടിസ്ഥാനത്തിൽ y പ്രതിഫലിക്കും നമുക്ക് അത് ചെയ്യാം yIyRyT TyIyR∂xTyT∂x0 yI∂xyR∂xyT∂x 1v1y1∂t1v1yR∂t 1v2yT∂t yIv1yRv1 yTv2 v2yIv2yR v1yT അതിനാൽ അടുത്ത സ്ലൈഡിൽ സമവാക്യങ്ങൾ മാറ്റിയെഴുതാം എനിക്ക് y ഇൻസിഡന്റ് ഒപ്പം y റിഫ്ലെക്ടഡ് y ട്രാൻസ്മിറ്റഡ് ന് തുല്യമാണ് മൈനസ് v 2 y ഇൻസിഡന്റ് പ്ലസ് v 2 y റിഫ്ലെക്ടഡ് മൈനസ് v 1 y ട്രാൻസ്മിറ്റഡ് സമവാക്യo 2 ന് തുല്യമാണ് സമവാക്യം 1 നെ v 1 കൊണ്ട് ഗുണിച്ച് സമവാക്യo 2 ലേക്ക് ചേർക്കുക എനിക്ക് v 1 മൈനസ് v 2 y ഇൻസിഡന്റ്പ്ലസ് v 1 പ്ലസ് v 2 y റിഫ്ലെക്ടഡ് 0 ന് തുല്യമാണ് ഇത് എനിക്ക് y റിഫ്ലെക്ടഡ് v 2 മൈനസ് v 1 ഓവർ v 2 പ്ലസ് v 1 y ഇൻസിഡന്റ് ന് തുല്യമാണ് അതിനാൽ y റിഫ്ലെക്ടഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വീണ്ടും സമാനമായ കൃത്രിമത്വം നടത്തുക നിങ്ങൾക്ക് y ട്രാൻസ്മിറ്റഡ് 2 v 2 ഹരിക്കുന്നു v 2 പ്ലസ് v 1 y ഇൻസിഡന്റ് അതിർത്തി വ്യവസ്ഥകൾ വേഗത്തിൽ പരിശോധിക്കാം എനിക്ക് y I പ്ലസ് y r v 2 മൈനസ് v 1 ഓവർ v 2 പ്ലസ് v 1 പ്ലസ് 1 y I എന്നിവയ്ക്ക് തുല്യമാണെങ്കിൽ ഇത് തീർച്ചയായും എനിക്ക് 2 v 2 ഓവർ v 2 പ്ലസ് v 1 നൽകുന്നു ഇത് ഇവിടെ എന്റെ ഉത്തരമാണ് V 1 y റിഫ്ലെക്ടഡ് നേക്കാൾ v 2 ചെറുതാണെങ്കിൽ y i എന്നതിന് വിപരീത ചിഹ്നത്തിലാണെന്നത് ശ്രദ്ധിക്കുക അതിനർത്ഥം എനിക്ക് വലതുവശത്ത് ഭാരം കൂടിയ ഒരു സ്ട്രിംഗ് ഉണ്ടെങ്കിൽ അത് വളരെ ചെറുതാക്കുന്നു പ്രതിഫലിക്കുന്ന തരംഗത്തിന് ഒരു ഫേസ് മാറ്റം വരുത്താൻ പോകുന്നു ഇപ്പോൾ ഇത് ഒരു സ്ട്രിംഗിൽ തരംഗത്തിനായി ലഭിക്കുന്ന ഉത്തരമാണ് ആമ്പ്ലിറ്റ്യൂഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും വരുന്ന ഊർജ്ജം ട്രാൻസ്മിറ്റഡ് പ്ലസ് റിഫ്ലെക്ടഡ് ഊർജ്ജത്തിനു തുല്യമാണ് ഇത് ഊർജ്ജ സംരക്ഷണത്തിന് ആവശ്യമാണ് വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് സമാനമായ സമവാക്യങ്ങൾ ഇപ്പോൾ ലഭിക്കും വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് അതിർത്തിയിലെ വ്യവസ്ഥകൾ വൈദ്യുത കാന്തികക്ഷേത്രങ്ങളുടെ കാര്യത്തിലാണ് ശരി ആ അതിർത്തി വ്യവസ്ഥകൾ നമുക്ക് നൽകാൻ പോകുന്നു ഇൻകമിംഗ് ഇലക്ട്രിക് ഫീൽഡിന്റെ വ്യാപ്തി എന്താണ് ഇൻകമിംഗ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഏത് ഭാഗം പ്രതിഫലിപ്പിക്കാൻ പോകുന്നു എന്ത് ഭാഗം ട്രാൻസ്മിറ്റ ചെയ്യാൻ പോകുന്നു അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ അത് ചെയ്യും